നമഷ്കാരം കഴിഞ്ഞ രണ്ട് സെഷനുകളിൽ മൂന്ന് ഫേസ് കണക്ഷനുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു പ്രത്യേകിച്ചും സ്റ്റാർ സ്റ്റാർ സ്റ്റാർ ഡെൽറ്റ കണക്ഷനുകളെക്കുറിച്ചും അവസാന പ്രഭാഷണത്തിൽ ഡെൽറ്റ ഡെൽറ്റ കണക്ഷനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അതിനാൽ ഇന്ന് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെഷൻ ആരംഭിക്കാം ഡെൽറ്റ വൈ കണക്ഷനും ഡെൽറ്റ ഉറവിടമാണെന്നും കണക്റ്റുചെയ്ത നക്ഷത്രം ലോഡാണെന്നും നിങ്ങൾക്ക് പറയാം സെഷന്റെ പിന്നീടുള്ള ഭാഗത്ത് മൂന്ന് ഫേസിനുളള ഉർജ്ജത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും നമുക്ക് ചർച്ച ആരംഭിക്കാം അടിസ്ഥാനപരമായി ഡെൽറ്റ വൈ കണക്ഷനോ ഡെൽറ്റ സ്റ്റാർ കണക്ഷനോ ആണെങ്കിൽ നമ്മൾ ഉറവിടം ഡെൽറ്റ കണക്റ്റുചെയ്തു ലോഡ് സ്റ്റാർ കണക്റ്റുചെയ്തു ഈ ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറവിടം ഡെൽറ്റ ആയി കണക്റ്റുചെയ്തു അതായത് ലോഡ് സ്റ്റാർ ആയി കണക്റ്റുചെയ്തു കൂടാതെ ലൈൻ വൈദ്യുതധാരകൾ Ia Ib Ic എന്നിവയാണ് മുമ്പത്തെ കേസുകളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ സാഹചര്യത്തിലും ഉറവിടത്തിനായി പോസിറ്റീവ് സീക്വൻസ് പരിഗണിക്കപ്പെടുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടത്തിന്റെ ഫേസ് വോൾട്ടേജ് ഇപ്രകാരം നൽകിയിരിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടത്തിന്റെ കാര്യത്തിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജുകളും തുല്യമാണ് ലൈൻ കറന്റ് കണ്ടെത്താൻ കെവിഎൽ പ്രയോഗിക്കാം ആദ്യ സ്ലൈഡിൽ കണ്ട ചിത്രം നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ നമ്മൾ aANBba ലൂപ്പിന് ചുറ്റും കിർചോഫ് വോൾട്ടേജ്Kirchoff's voltage നിയമം പ്രയോഗിക്കും കിർചോഫ് വോൾട്ടേജ് നിയമം നമ്മൾ പ്രയോഗിക്കുന്ന ലൂപ്പായിരിക്കും ഇത് അതിനാൽ നമ്മൾ ഉപയോഗിച്ചാൽ അഥവാ അതായത് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അതിനാൽ അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡെൽറ്റ സ്റ്റാർ കണക്റ്റുചെയ്ത സിസ്റ്റത്തിനായുള്ള ലൈൻ കറന്റ് കണക്കാക്കാം ലൈൻ കറന്റ് നേടുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടത്തെ അതിന്റെ തുല്യ നക്ഷത്ര കണക്റ്റുചെയ്ത അല്ലെങ്കിൽ Y കണക്റ്റുചെയ്ത ഉറവിടത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് നിങ്ങൾ പരിവർത്തനം ചെയ്യുമ്പോൾ ഫേസ് വോൾട്ടേജുകൾ Van Vbn Vcn എന്നിവയായിരിക്കുമെന്ന് നമുക്ക് പറയാം വൈ കണക്റ്റുചെയ്ത ഉറവിടത്തിന്റെ ലൈൻ വോൾട്ടേജ് അവയുടെ അനുബന്ധ ഫേസിനേക്കൾ 30 ഡിഗ്രി മുന്നിലും മൂല്യം റൂട്ട് 3 മടങ്ങ് അധികവുമാണെന്നു നമ്മൾ ഇതിനകം ചർച്ചചെയ്തു അതിനാൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് ചില ഉറവിട ഇംപെഡൻസ് Zs ഉപയോഗിച്ച് ഒരു ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടമുണ്ടെന്ന് കരുതുക അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റാർ ഡെൽറ്റ പരിവർത്തനം പ്രയോഗിക്കാനും തുല്യ നക്ഷത്ര കണക്റ്റുചെയ്ത ഉറവിടത്തിനായുള്ള ഓരോ ഫേസ് ഉറവിട ഇംപെഡൻസ് കണ്ടെത്താനും കഴിയും സ്റ്റാർ ഇംപെഡൻസ് ZS 3 ആയി മാറും നമ്മൾ അത് സ്റ്റാർ ഡെൽറ്റ പരിവർത്തനം നടത്തുമ്പോൾ ഇതിനകം കണ്ടു ഇപ്പോൾ ഉറവിടം Y അല്ലെങ്കിൽ നക്ഷത്രമായി പരിവർത്തനം ചെയ്തുകഴിഞ്ഞാൽ ഈ സർക്യൂട്ട് Y Y നെറ്റ്വർക്കായി മാറുന്നു ഇത് നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത സിംഗിൾ ഫേസ് വിശകലനം ഉപയോഗിച്ച് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം സമതുലിതമായ നക്ഷത്ര കണക്റ്റുചെയ്ത ലോഡിന് ഓരോ ഫേസിലും 40 j25 ഇംപിഡൻസ് ഉണ്ടെന്ന് കരുതുക Vab 210∠0 ° V ഉള്ള ഡെൽറ്റ കണക്റ്റുചെയ്ത പോസിറ്റീവ് സീക്വൻസ് ഉറവിടവുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഫേസ് പ്രവാഹങ്ങളും ലൈൻ വൈദ്യുതധാരകളും കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ നൽകിയിരിക്കുന്നതുപോലെ നമുക്ക് ലോഡ് ഇംപിഡൻസ് ഉണ്ട് നമ്മൾ ഇത് ഫേസർ ഫോർമാറ്റിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഉറവിട വോൾട്ടേജ് എന്നത് നമ്മൾ ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടത്തെ നക്ഷത്ര കണക്ഷനിലേക്ക് പരിവർത്തനം ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ തുല്യമായ നക്ഷത്ര കണക്റ്റുചെയ്ത ഉറവിടത്തിനായുള്ള ഓരോ ഫേസിന്റെ വോൾട്ടേജ് ഇത് ആയിരിക്കും ഇപ്പോൾ ലൈൻ കറന്റുകൾ എന്തായിരിക്കും ലൈൻ പ്രവാഹങ്ങൾ ലോഡ് സന്തുലിതമായതിനാൽ വൈദ്യുതധാരകളുടെ വ്യാപ്തി അതായത് ലൈൻ പ്രവാഹങ്ങൾ അതേപടി തുടരും ആംഗിൾ മൂല്യത്തിൽ മാത്രമായിരിക്കും മാറ്റം ഇനി നമുക്ക് ബാലൻസ് ത്രീ ഫേസ് സിസ്റ്റത്തിലെ പവർ ചർച്ച ചെയ്യാം മൂന്ന് ഫേസുള്ള സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ലോഡ് ആഗിരണം ചെയ്യുന്ന തൽക്ഷണ ശക്തി കണ്ടെത്താൻ നമ്മൾ സമയ ഡൊമെയ്നിൽ വിശകലനം നടത്തും അതിനാൽ നമ്മൾ എന്തു ചെയ്യും ലോഡ് നക്ഷത്രമായി ബന്ധിപ്പിച്ചതായി നമ്മൾ അനുമാനിക്കും അത്തരം കേസിലെ ഫേസ് വോൾട്ടേജ് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ ലോഡ് ആണെങ്കിൽ ഫേസ് പ്രവാഹങ്ങൾ ആംഗിൾ തീറ്റ അനുസരിച്ച് അവയുടെ ഫേസ് വോൾട്ടേജുകളുടെ പിന്നിലായിരിക്കും നമുക്ക് വൈദ്യുത പ്രവാഹങ്ങൾ ഇങ്ങനെ എഴുതാം ഫേസ് കറന്റിലെ ആർഎംഎസ് മൂല്യമാണ് മൊത്തം തൽക്ഷണ ശക്തി വ്യക്തിഗത ഫേസ് തൽക്ഷണ ശക്തികളുടെ ആകെത്തുകയായിരിക്കും

സമതുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തിലെ ആകെ തൽക്ഷണ ശക്തി സ്ഥിരമാണെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും ഈ പദപ്രയോഗത്തിൽ സമയ ഘടകമില്ലെന്നാണ് ഇതിനർത്ഥം അതിനാൽ ഓരോ ഫേസിലെയും തൽക്ഷണ ശക്തി പോലും സമയവുമായി ബന്ധപ്പെട്ട് മാറും മൂന്ന് ഫേസ് വൈദ്യുതി സ്ഥിരമായി തുടരും മൊത്തം തൽക്ഷണ ശക്തി സമയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ ഡെൽറ്റ അല്ലെങ്കിൽ നക്ഷത്ര കണക്റ്റുചെയ്ത ലോഡിനുള്ള ഓരോ ഫേസിലും ശരാശരി പവർ p 3 ആയിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ ഓരോ ഫേസിലും നിങ്ങൾക്ക് ലഭിക്കുന്ന റിയൽ പവർ ഓരോ ഫേസിലും ഉള്ള റിയാക്ടീവ് പവർ ഓരോ ഫേസിലും ഉള്ള അപാരൻറ്റ് പവർ ഓരോ ഫേസിലും ഉള്ള കോംപ്ലക്സ് പവർ ഇവിടെ Vp Ip എന്നിവ യഥാക്രമം മാഗ്നിറ്റ്യൂഡ് Vp Ip എന്നിവയ്ക്കൊപ്പം ഫേസ് വോൾട്ടേജുകളും ഫേസ് പ്രവാഹങ്ങളുമാണ് ത്രീ ഫേസ് സിസ്റ്റത്തിനായി മൊത്തം പവർ നിങ്ങൾക്ക് സ്റ്റാർ കണക്റ്റുചെയ്ത ലോഡ് ഉണ്ടെങ്കിൽ ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിന് അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും ലോഡ് പരിഗണിക്കാതെ അത് സ്റ്റാർ കണക്റ്റുചെയ്തതായാലും ഡെൽറ്റ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മൊത്തം പവർ എന്നതിന് തുല്യമായി തുടരും അതുപോലെ റിയാക്റ്റീവ് പവർ ഇങ്ങനെ ആയിരിക്കും മൊത്തം കോംപ്ലക്സ് പവർ നൽകുന്നത് ഇപ്പോൾ Zp Zp∠θ ആണെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് പവർ ഇങ്ങനെ പ്രതിനിധീകരിക്കാൻ കഴിയും പവർ വിതരണത്തിനായുള്ള ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ പ്രധാന ഗുണങ്ങൾ ത്രീ ഫേസ് സിസ്റ്റം ഒരേ ലൈൻ വോൾട്ടേജ് നും ഒരേ ആഗിരണം ചെയ്യപ്പെടുന്ന പവർ നും സിംഗിൾ ഫേസ് സിസ്റ്റത്തേക്കാൾ കുറഞ്ഞ അളവിലുള്ള വയർ ഉപയോഗിക്കുന്നു എന്നതാണ് ഒരേ ലൈൻ വോൾട്ടേജും ഒരേ പവർ ലോഡിലേക്ക് നൽകപ്പെടുന്ന സിംഗിൾ ഫേസ് സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൈദ്യുതി വിതരണത്തിനായുള്ള ത്രീ ഫേസ് സിസ്റ്റം കുറഞ്ഞ അളവിൽ വയർ ഉപയോഗിക്കുമെന്നത് കണ്ടെത്താനും ന്യായീകരിക്കാനും ശ്രമിക്കാം അതിനാൽ നമ്മൾ എന്തു ചെയ്യും രണ്ട് സിസ്റ്റങ്ങളിലും ഒരെണ്ണം മൂന്ന് ഫേസും മറ്റൊന്ന് സിംഗിൾ ഫേസ് സിസ്റ്റമാണെന്നും നമ്മൾ ആദ്യം അനുമാനിക്കും ഈ രണ്ട് സിസ്റ്റങ്ങളിലും നമ്മൾ ഒരേ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു വയർ ഒരേ റെസിസ്റ്റീവിറ്റിയും ഒരേ നീളവും ഉള്ള ചെമ്പ് ഉപയോഗിക്കുന്നു എന്നാണ് ഇതിനർത്ഥം വയർ നീളം l ആണെന്നും ലാളിത്യത്തിനായി ലോഡുകൾ റെസിസ്റ്റീവ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതായത് ലോഡിന് പവർ ഫാക്ടർ ഒന്നായിരിക്കും സിംഗിൾ ഫേസ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും സിംഗിൾ ഫേസ് സിസ്റ്റം സൃഷ്ടിക്കുന്നതിന് നമുക്ക് രണ്ട് വയറുകളുണ്ടാകും അവിടെ ഒരു സിംഗിൾ ഫേസ് ഉറവിടം ലോഡിന് വൈദ്യുതി നൽകും ലോഡിന് വിതരണം ചെയ്യുന്ന വൈദ്യുതി PL ആണെന്നും ലോഡിന് കുറുകെയുള്ള വോൾട്ടേജ് VL ആണെന്നും ലോഡിൽ ഒഴുകുന്ന വൈദ്യുതധാര IL R ആണ് ട്രാൻസ്മിഷൻ വയർ റെസിസ്റ്റൻസ് എന്നും നമുക്ക് പറയാം ഈ സിംഗിൾ ഫേസ് സർക്യൂട്ട് സൃഷ്ടിക്കാൻ നമുക്ക് 2 വയറുകളുള്ളതിനാൽ രണ്ട് വയറുകളിൽ വൈദ്യുതി നഷ്ടപ്പെടും പ്രക്ഷേപണത്തിലെ നഷ്ടം ഇനി നമുക്ക് 3 വയർ ത്രീ ഫേസ് സിസ്റ്റം എടുക്കാം ഇതിൽ ലോഡിലേക്ക് പോകുന്ന കറന്റാണ് എന്ന് നമുക്ക് അനുമാനിക്കാം എല്ലാ ലൈൻ വൈദ്യുത പ്രവാഹങ്ങളുടെയും വ്യാപ്തി ഒരുപോലെയാകുമെന്ന് ഇവിടെ നമ്മൾ പരിഗണിക്കുന്നു ലോഡ് സന്തുലിതമാണെന്ന് നമ്മൾ പരിഗണിക്കുന്നതിനാലാണിത്

അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ മൂന്ന് വയറുകളിൽ വൈദ്യുതി നഷ്ടപ്പെടും കാരണം മൂന്ന് ഫേസ് സംവിധാനത്തിന് മൂന്ന് വയറുകളുണ്ടാകും ഓരോ വയറിന്റെയും റെസിസ്റ്റൻസ് R ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ വൈദ്യുതി നഷ്ടം ഇപ്പോൾ ഈ 2 സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും സിംഗിൾ ഫേസ് ത്രീ ഫേസ് സിസ്റ്റത്തിനുള്ളതാണ് സിംഗിൾ ഫേസ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ വയർ റെസിസ്റ്റൻസ് ആണ് അതുപോലെ ഇവിടെ r r എന്നിവ വയറുകളുടെ റേഡിയസ് ആണ് അതിനാൽ ഈ മൂല്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കും രണ്ട് സിസ്റ്റങ്ങളിലും ഒരേ വൈദ്യുതി നഷ്ടം സംഭവിക്കുന്നു ഇത് സിംഗിൾ ഫേസ് അല്ലെങ്കിൽ ത്രീ ഫേസ് സിസ്റ്റം ആണെങ്കിലും ഈ സിസ്റ്റത്തിലെ ആകെ നഷ്ടം തുല്യമാണ് അതായത് തുല്യമായിരിക്കും അതായത് ഇപ്പോൾ ആവശ്യമായ വസ്തുക്കളുടെ അനുപാതം വയറുകളുടെ എണ്ണവും അവയുടെ അളവും അനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് സിംഗിൾ ഫേസ് സിസ്റ്റവും ത്രീ ഫേസ് സിസ്റ്റവും സൃഷ്ടിക്കാൻ എത്ര മെറ്റീരിയൽ ആവശ്യമാണെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും സിംഗിൾ ഫേസിനായുള്ള മെറ്റീരിയൽ എന്നതിനർത്ഥം ഒരൊറ്റ ഫേസിൽ 2 വയറുകളാണുള്ളത് അതിനാൽ നിങ്ങൾക്ക് വയർ 2 തവണ എഴുതാം സിലിണ്ടർ ആകൃതിയിലുള്ള വയറുകളായതിനാൽ മൊത്തം വോളിയം ഇതായിരിക്കും പക്ഷേ അതിനാൽ മുകളിലുള്ള സമവാക്യം ചുരുങ്ങി സിംഗിൾ ഫേസ് സിസ്റ്റം ത്രീ ഫേസ് സിസ്റ്റത്തേക്കാൾ 33 ശതമാനം കൂടുതൽ മെറ്റീരിയൽ ഒരേ അളവിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിനും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഒരേ നഷ്ടം വരുത്തുന്നതിനും ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാനാകും അല്ലെങ്കിൽ തുല്യ സിംഗിൾ ഫേസ് സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ത്രീ ഫേസ് സിസ്റ്റം 75 ശതമാനം മെറ്റീരിയൽ മാത്രമേ ഉപയോഗിക്കൂ എന്ന് നിങ്ങൾക്ക് എഴുതാം സിംഗിൾ ഫേസ് സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരേ പവർ നൽകുന്നതിന് ത്രീ ഫേസ് സിസ്റ്റത്തിന് വളരെ കുറച്ച് മെറ്റീരിയൽ മതിയെന്ന് ഇത് കാണിക്കുന്നു ഇപ്പോൾ ശക്തിയുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ മനസിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഉറവിടത്തിലും ലോഡിലുമുള്ള മൊത്തം ശരാശരി ശക്തി റിയാക്ടീവ് പവർ കോംപ്ലക്സ് പവർ എന്നിവ നമ്മൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറവിടം നക്ഷത്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഫേസ് A ന്റെ ഓരോ ഫേസിലും വോൾട്ടേജ് 110∠0 ആണ് ഫേസ് Bക്ക് ഇത് 110∠ 120ഉം ഫേസ് സിക്ക് 110∠ 240 ഉം ആണ് ഓം എന്നത് ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇംപെഡൻസാണ് ഇത് മൂന്ന് ഫേസിലും സമാനമാണ് ലോഡിന്റെ ഓരോ ഫേസ് ഇംപെഡൻസും 10 j8 ഓം ആയിരിക്കുന്നിടത്ത് ഇത് വീണ്ടും നക്ഷത്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം ഇപ്പോൾ ഈ കണക്കിൽ നിന്ന് സിസ്റ്റം സന്തുലിതമാണെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും അതിനാൽ അത്തരം സാഹചര്യത്തിൽ കറണ്ട് Ipയുടെ മൂല്യം കണക്കാക്കിയാൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ലൂപ്പിൽ കിർചോഫ് വോൾട്ടേജ് നിയമം ഉപയോഗിക്കാനും കറണ്ട് Ipയുടെ മൂല്യം കണ്ടെത്താനും കഴിയും അതിനാൽ നിങ്ങൾ ഇത് പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കും എന്തായാലും Vp 110∠0 ° Ip 6 8 ° ഇത് നിങ്ങളുടെ ഓരോ ഫേസ് കറന്റും ആയിരിക്കും എന്ന ചോദ്യത്തിലാണ് ഇത് നൽകിയിരിക്കുന്നത് ഇപ്പോൾ Vp Ip എന്നിവ കണക്കാക്കുമ്പോൾ ഉറവിടത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്ന കോംപ്ലക്സ് പവർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഉറവിടം സാധാരണയായി ലോഡിന് വൈദ്യുതി നൽകുന്നുവെന്ന് നിങ്ങൾക്കറിയാം ആഗിരണം ചെയ്യപ്പെടുന്ന പവർ കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം അതിൽ നെഗറ്റീവ് ചിഹ്നം ഉണ്ടാകും എന്നാണ് ഉറവിടം ആഗിരണം ചെയ്യുന്ന മൊത്തം കോംപ്ലക്സ് പവറിനു തുല്യമായിരിക്കും സ്വീകരിക്കുന്ന അറ്റം എന്നാൽ ലോഡിന്റെ അറ്റം Zp 10 j8 12

8 ° എന്നാണ് അർത്ഥമാക്കുന്നത് നക്ഷത്രം ബന്ധിപ്പിച്ച ഫേസ് കറന്റ് ലൈൻ കറന്റിന് തുല്യമായതിനാൽ ഐപി ലൈൻ കറന്റും ആണ് ലോഡ് ആഗിരണം ചെയ്യുന്ന കോംപ്ലക്സ് പവർ നിങ്ങൾക്ക് ഈ പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് കണക്കാക്കാം അതിനാൽ നിങ്ങൾക്ക് ലോഡ് ആഗിരണം ചെയ്യുന്ന യഥാർത്ഥ പവർ 1392 വാട്ട്സും ലോഡ് ആഗിരണം ചെയ്യുന്ന റിയാക്ടീവ് പവർ 1113 VAR ഉം ആണ് ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് പവർ തമ്മിലുള്ള വ്യത്യാസം ലൈൻ ഇംപെഡൻസിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്നു അതായത് ഉറവിടം നൽകുന്ന ഊർജ്ജം ലോഡ് ആഗിരണം ചെയ്യുന്ന ശക്തിയെ മൈനസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ സൂത്രവാക്യത്തിന്റെ സഹായത്തോടെ ലൈൻ ആഗിരണം ചെയ്യുന്ന ഊർജ്ജത്തിന്റെ മൂല്യം നമ്മൾ ആദ്യം കണ്ടെത്തും ട്രാൻസ്മിഷനിൽ നഷ്ടപ്പെടുന്ന ഊർജ്ജത്തിന്റെ അളവായിരിക്കും ഇത് ഇത് ലോഡ് ആഗിരണം ചെയ്യുന്ന പവർ മൈനസ് ഉറവിട പവർ തമ്മിലുള്ള വ്യത്യാസമല്ലാതെ മറ്റൊന്നുമല്ല ചുരുക്കത്തിൽ മൊത്തം ഊർജ്ജത്തിന്റെ ആകെത്തുക സോഴ്സ് പവർ ലോഡ് പവർ ട്രാൻസ്മിഷൻ ലൈൻ ആഗിരണം ചെയ്യുന്ന പവർ എന്നിവയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും എല്ലാം 0 ന് തുല്യമായിരിക്കും അതിനാൽ ഇതുപയോഗിച്ച് നമ്മളുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ കഴിയും ഈ സെഷനിൽ നമ്മൾ അവസാന കോമ്പിനേഷനെക്കുറിച്ച് ചർച്ചചെയ്തു അതാണ് ത്രീ ഫേസ് സർക്യൂട്ടിനായുള്ള ഡെൽറ്റ സ്റ്റാർ കോമ്പിനേഷൻ സമതുലിതമായ ത്രീ ഫേസ് പവറിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അടുത്ത സെഷനിൽ അസന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റവും അസന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തിനുള്ള വൈദ്യുതി കണക്കാക്കലും നമ്മൾ ചർച്ച ചെയ്യും